ഞങ്ങൾ ഇപ്പോൾ ഈ ഡയറിയുടെ ക്വാളിറ്റി ചെക്കിങ് ലാബിലാണ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക് ചോദിച്ചറിയാം അതിനാൽ മാഡം ഈ ലാബിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വിശദീകരിക്കാമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രിയങ്ക റാവു ഞാൻ ഇവിടെ ട്രെയിനിംഗ് ജൂനിയർ എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്നു അടിസ്ഥാനപരമായി ഈ ലാബ് റോ മിൽക്ക് റിസീവിംഗ് ഡോക്ക് ലാബ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം

അതിനാൽ ഞങ്ങൾക്ക് ഈ സാമ്പിളുകൾ ലഭിച്ചുകഴിഞ്ഞാൽ ഈ സാമ്പിളുകൾ ഇവിടെ പരിശോധിക്കുന്നു ഇത് ഞങ്ങളുടെ FD 1 മെഷീൻ ആണ് ഈ മെഷീൻ കൊഴുപ്പ് SNF പ്രോട്ടീൻ കാണാം ഇപ്പോൾ ഞങ്ങൾ ഈ ഡയറിയുടെ പ്രോസസ്സിംഗ് ആൻഡ് പ്രോസസ് കൺട്രോൾ പ്ലാന്റിലാണ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ വിശദാംശങ്ങളും നമുക്ക് ഇവരോട് ചോദിച്ചറിയാം അതിനാൽ അത് എങ്ങനെ നടക്കുന്നു എന്നതിനെക്കുറിച്ച് കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ ഞാൻ സാറിനോട് അഭ്യർത്ഥിക്കുന്നു അതെ ഇത് ഒരു പാൽ സംസ്കരണ യൂണിറ്റാണ് ഞങ്ങൾക്ക് ഒരു സെൻട്രലൈസ്ഡ് എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് അതിനാൽ ഹീറ്റിംഗ് വിഭാഗത്തിൽ ഞങ്ങൾ പാലിനെ 278 ഡിഗ്രി സെന്റിഗ്രേഡിൽ ചൂടാക്കുന്നു ഇത് എല്ലാ ബാക്ടീരിയകളെയും നീക്കം ചെയ്യും ഉടൻ തന്നെ ഞങ്ങൾ ആ പാൽ 4 ഡിഗ്രിയിൽ താഴെ തണുപ്പിക്കുന്നു ഇത് ബാക്ടീരിയയുടെ വളർച്ചയെ പരിമിതപ്പെടുത്തുന്നു അപ്പോൾ ഇത് ഇവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു ഇവിടെ നിരവധി ഉപകരണങ്ങൾ ഉണ്ട് ഒമ്പത് പ്ലാന്റുകളും ഉണ്ട് സൈറ്റിൽ ഇത് എങ്ങനെ എല്ലാം ഉപയോഗിക്കുന്നുവെന്ന് വിശദീകരിക്കാൻ പോകുന്നു ഈ പ്ലാന്റിന്റെ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറായ ശ്രീ സി പട്ടേൽ ഇപ്പോൾ എന്റെ കൂടെയുണ്ട് എങ്കിൽ സർ ഈ പ്ലാന്റിൽ താങ്കൾക്കുള്ള ഇൻസ്ട്രുമെന്റേഷൻ സൌകര്യത്തെക്കുറിച്ച് വിശദീകരിക്കാമോ ഹായ് ഞാൻ P C പട്ടേൽ മുഴുവൻ ഡയറി പ്ലാന്റുകളിലെയും ഇൻസ്ട്രുമെന്റേഷനുമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ശരി അതിനാൽ വ്യത്യസ്തമായ മറ്റ് സെൻസറുകൾ എന്തൊക്കെയാണ് ലെവൽ സെൻസറുകൾ മാത്രമാണോ ഉള്ളത് ഓരോ ലെവൽ സെൻസറുകളും ഹൈഡ്രോസ്റ്റാറ്റിക് തരങ്ങളാണ് നേരത്തെ ഞങ്ങൾ ഇൻഫ്രാറെഡ് ടൈപ്പ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും നന്ദി ഇപ്പോൾ ഞങ്ങൾ പ്രോസസ് സെക്ഷനുകളുടെ ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും RTD സെൻസറുകൾ എന്ന് വിളിക്കുന്ന ടെമ്പറേച്ചർ സെൻസറുകൾ പാലിന്റെ യഥാർത്ഥ അളവ് കാണാൻ സഹായിക്കുന്നു മിൽക്ക് സിലോ ഇന്ഡിക്കേറ്റർസും നമ്പർ വണ്ണിൽ 12000 ലിറ്റർ പാലാണ് ഉള്ളത് രണ്ടാം നിരയിൽ ചില താപനില സൂചനകളാണ് ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ മിൽക്ക് പാസ്ചറൈസേഷൻ പ്ലാന്റിലാണ്ഇത് വളരെയധികം തിരക്കേറിയ പ്രദേശമാണ് അതിനാൽ നിങ്ങൾക്ക് ശരിയായി കേൾക്കണമെങ്കിൽ എനിക്ക് വളരെ ഉച്ചത്തിൽ സംസാരിക്കേണ്ടതായി വരും ഇതാണ് ടെമ്പറേച്ചർ മൈക്രോപ്രൊസസർ

പാൽ പാസ്ചറൈസറുകളുടെ കൊണ്ടുപോകുന്നു ഇതൊരു ഡൈവേർട്ടർ വാൽവ് സജീവമാകുന്നു അങ്ങനെ അത് റീസൈക്കിൾ ഏരിയയിലേക്ക് വരുന്നു ഇതൊരു ന്യൂമാറ്റിക് വാൽവാണ് സെറ്റ് പോയിന്റ് അനുസരിച്ച് നമുക്ക് താപനില നിയന്ത്രിക്കാനാകും ഇപ്പോൾ ഞങ്ങൾ പാൽപ്പൊടി സംസ്കരണ പ്ലാന്റിലാണ് ഉള്ളത് അതിനാൽ പാൽ മുതൽ പാൽപ്പൊടി വരെ നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്യപ്പെടുന്നു അത് എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം ഇത് വളരെ സങ്കീർണ്ണമായ ഒരു പ്ലാന്റാണ് ഈ പ്രത്യേക പൊടി സംസ്കരണത്തിനായി പ്രത്യേക ഡയറി ഉണ്ട് ഈ പ്ലാന്റിന്റെ മാനേജർ മിസ്റ്റർ പാരിക് എന്റെ കൂടെയുണ്ട് പാൽ മുതൽ പാൽപ്പൊടി വരെയുള്ള സംസ്കരണം എങ്ങനെയെന്ന് ദയവായി വിശദീകരിക്കാമോ അടിസ്ഥാനപരമായി പാൽ കേടായിപ്പോകുന്ന ഒരു ഉൽപ്പന്നമാണ് അതിനാൽ പാൽ കൂടുതൽ കാലം കേടുകൂടാതെയിരിക്കണമെങ്കിൽ പാലിനെ പാൽപ്പൊടികളാക്കി മാറ്റണം പാൽപ്പൊടി നിർമ്മാണ പ്രക്രിയയിൽ പാലിലെ വെള്ളം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് നമ്മൾ തുടർച്ചയായി തുറന്ന വായുവിൽ ചൂടാക്കുകയാണെങ്കിൽ ഉൽപ്പന്നങ്ങളിൽ വ്യത്യസ്തമായ പ്രോട്ടീനുകളും മറ്റ് വസ്തുക്കളും ഇല്ലാതാക്കുന്നു അതിനാൽ അത്തരം രൂപത്തിൽ പാൽ സംരക്ഷിക്കാൻ ഇവപൊറേഷൻ പ്ലാന്റിൽ പാലിൽ നിന്ന് വെള്ളം ബാഷ്പീകരിക്കുന്നു അത് വാക്വം ആയിട്ടാണ് ചെയ്യുന്നത് നീരാവിയുടെ സഹായത്തോടെ പാലിനെ ചെറിയ തിളനിലയിൽ ചൂടാക്കുന്നു കൂടാതെ താപനില എത്രയായിരിക്കും പാലിന്റെ ഊഷ്മാവ് പരമാവധി 72ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് ഏറ്റവും കുറഞ്ഞത് 48 ആണ് ഒരു ബാഷ്പീകരണ പ്ലാന്റിൽ നമുക്ക് വ്യത്യസ്തമായ ഇഫക്റ്റുകൾ ഉണ്ട് അടിസ്ഥാനപരമായി 1 കിലോ വെള്ളം ബാഷ്പീകരിക്കാൻ 1 കിലോ നീരാവിയാണ് ഉപയോഗിക്കുന്നത് ഒരു പ്ലാന്റിൽ ചെയ്യുന്നു ചൂടുള്ള വായുവിന്റെ സഹായത്തോടെ ചൂടാക്കുന്നു ഏകദേശം 175 മുതൽ 200 ഡിഗ്രി സെന്റിഗ്രേഡ് താപനിലയിൽ ചൂട് വായുവിന്റെ സഹായത്തോടെ പാലിനെ ഡ്രൈ ആക്കുന്നു കോൺസെൻട്രേറ്റഡ് ആയ പാൽ പൌഡർ രൂപത്തിലേക്ക് തുടർന്ന് ഞങ്ങൾ അത് തണുപ്പിച്ച ശേഷം ഞങ്ങൾ വിവിധ തരം പാക്കറ്റുകളിലേക്ക് പാക്ക് ചെയ്യുന്നു ഈ മുഴുവൻ പ്രക്രിയയ്ക്കും ആവശ്യമായ പ്രോസസ്സ് കണ്ട്രോൾ ഈ പ്രത്യേക മുറിയിൽ നിന്നാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് APV ഇൻവെൻസിസ് DCS അടിസ്ഥാനമാക്കിയുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഒരു സ്ക്രീനിൽ ആവശ്യമായ എല്ലാ പ്രോസസ്സ് പാരാമീറ്ററുകളും ഞങ്ങൾ സംഗ്രഹിക്കുന്നു ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നതും ഇവിടെ നിന്നാണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഡിസിഎസ് മാർഷലിംഗ് റാക്ക് സംസാരിച്ചപ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആണ് അതിനാൽ ആ പ്രഭാഷണത്തിൽ എന്താണ് ഫീൽഡ് ബസ് എന്താണ് നോഡ് ബസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇതിനകം പഠിച്ചു ഈ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നു പിന്നെ എങ്ങനെ ഇത് ഈ പ്ലാന്റിനെ മുഴുവൻ നിയന്ത്രിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെയാണ് മിസ്റ്റർ പട്ടേൽ നമ്മോട് വിശദീകരിക്കാൻ പോകുന്നത് മിസ്റ്റർ പട്ടേൽഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ദയവായി വിശദീകരിക്കാമോ അതിനാൽ ഞങ്ങൾ മുഴുവൻ ഡിസിഎ സിസ്റ്റങ്ങളുടെയും മാർഷലിംഗ് കാബിനറ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ തരംഉപകരണങ്ങൾ നമുക്ക് ഇവിടെ തിരിച്ചറിയാനാകും ഇവിടെ രണ്ട് കൺട്രോൾ പ്രൊസസറുകൾ ഉണ്ടെന്ന് നമുക്ക് കാണാം എന്തുകൊണ്ടാണ് രണ്ട് കൺട്രോൾ പ്രൊസസറുകൾ ഇൻസ്റ്റാൾ ചെയ്തത് കാരണം ഒരു കൺട്രോൾ പ്രോസസർ പരാജയപ്പെടുകയാണെങ്കിൽ മറ്റൊന്ന് മുഴുവൻ നിയന്ത്രണങ്ങളും സ്വയമേ എടുക്കുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി ഫാൾട് ടോളറൻസ് ആണ് ഇവയിൽ ഒന്ന് പരാജയപ്പെട്ടാൽ മറ്റേ പ്രോസസർ അത് ഏറ്റെടുക്കും ഈ പരിവർത്തനം ഓട്ടോമാറ്റിക് ആയി സംഭവിക്കുന്നു ഇത് നോഡ് ബസ് ആണ് കൺട്രോൾ പ്രോസസറുകൾഇതാണ് ഇവ വ്യത്യസ്ത തരം എപിഎമ്മുകളാണ് DCA സിസ്റ്റങ്ങളിലേക്ക് ഇൻപുട്ടുകൾ ഉണ്ട് ഒന്ന് അനലോഗ് ഇൻപുട്ടും ആ നീല നിറങ്ങൾ APM ലെ ഡിജിറ്റൽ ഇൻപുട്ടിനെ സൂചിപ്പിക്കുന്നു മജന്ത നിറങ്ങൾ അനലോഗ് ഇൻപുട്ടുകളെ സൂചിപ്പിക്കുന്നു ഇവയാണ് ഡിസിഎ സിസ്റ്റങ്ങളുടെ ആർക്കിടെക്ചറുകൾ അതിനാൽ അനലോഗ് ഇൻപുട്ടുകളും ഈ പ്രത്യേക സിസ്റ്റത്തിൽ കൈകാര്യം ചെയ്യുന്നു പാൽപ്പൊടി നിർമ്മാണം രണ്ട് പ്രക്രിയകളായി തിരിച്ചിരിക്കുന്നുഒന്ന് ബാഷ്പീകരണം പാക്ക് ചെയ്യുന്നു ഞങ്ങൾ പൊടി1 കിലോ പൌച്ചിലും 500 ഗ്രാം പൌച്ചുകളിലും പാക്ക് ചെയ്യുന്നു ഇതാണ് ഞങ്ങളുടെ ശിശു പാൽ ഭക്ഷണം ഇതാണ് ഞങ്ങളുടെ കൊഴുപ്പ് നീക്കം ചെയ്ത പാൽപ്പൊടി ബേബി ഫുഡിന്റെ ബ്രാൻഡ് നാമം അമുൽ സ്പ്രേ എന്നുമാണ് ഇതാണ് ബട്ടർ സെക്ഷൻ ആണ് പ്രതിദിനം വൈറ്റ് ബട്ടറും അമുൽ ബട്ടറും 25 ഗ്രാം 100 ഗ്രാം 500 ഗ്രാം അല്ലെങ്കിൽ 1 കിലോ വീതമുള്ള പാക്കിങ് ചെയ്യുന്നു 25 ശതമാനം പാൽ 1200 സൊസൈറ്റികളിൽ നിന്ന് ഞങ്ങൾ രാവിലെയും വൈകുന്നേരവുമായി ശേഖരിക്കും 75 ശതമാനം പാൽ BMC വഴി ശേഖരിക്കും ഇന്ന് ഞങ്ങൾ അമുൽ വെണ്ണ സാഗർ നെയ്യ് മധുരമുള്ള ബാഷ്പീകരിച്ച പാൽ അതുപോലെ ഞങ്ങളുടെ പൊടി ഉല്പന്നങ്ങളായ അമുൽ സ്പ്രേ കാണിക്കാനാകും ആദ്യ സീസണിൽ ഞങ്ങൾ പൊടി നിർമ്മാണ പ്ലാന്റിനായി 3 പ്ലാന്റുകൾ പാട്ടത്തിനെടുക്കും ഞങ്ങൾ ഇപ്പോൾ അമുൽ ദുദ്സാഗർ ഡയറിയിലാണ് ഇത് ഈ മേഖലയിലെ ഏറ്റവും വലിയ ഡയറികളിലൊന്നാണ് ഇത് ഗുജറാത്തിലെ മെഹ്സാന ജില്ലയാണ് ഉള്ളത് അതിനാൽ രാവിലെ മുതൽ സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ട്രക്കുകളിൽ പാത്രങ്ങളിലാക്കി ധാരാളം പാൽ വരുന്നത് നമുക്ക് കാണാം വൻതോതിൽ പാൽ നിറച്ച ട്രക്കുകളും വരുന്നുണ്ട് ഈ കണ്ടെയ്നർ പാലും വെവ്വേറെയാണ് സംസ്കരിക്കുന്നത് അതിനാൽ അയൽ ഗ്രാമങ്ങളിൽ നിന്ന് ഈ പാത്രങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് പാൽ പ്രാഥമികമായി പരിശോധിക്കുന്നത് ഗുണനിലവാരത്തിന്റെ അളവ് പോലുള്ള പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാം നമ്മൾ കണ്ടു ഈ പ്രോസസ്സിംഗ് വിവിധ പാൽപ്പൊടി പാക്കറ്റിംഗ് എന്നിവയെല്ലാം ചെയ്യുന്നു അതിനാൽ ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നു എന്നതാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൂടാതെ വിവിധ ഉൽപ്പന്നങ്ങളിലേക്കുള്ള പാൽ സംസ്കരണത്തിൽ ധാരാളം സങ്കീർണ്ണമായ സംവിധാനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ കാണും ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പാൽ പാത്രങ്ങളിലാക്കി കൊണ്ടുവരുന്നു തുടർന്ന് കുറച്ച് പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു